ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ പോലും നാം ഈ 3 ഇക്വേഷനുകൾ പിന്നെ ഈ 3 വേരിയബിൾ എന്നിവ എങ്ങനെ നിർമിക്കും എന്ന് കണ്ടു ഈ 3 വേരിയബിൾ V1 V2 V3എന്നിവ ആണ് ഈ 3 വേരിയബിൾ എനിക്ക് സോൾവ് ചെയ്യാനാകും ഇനി നാം ഈ നോഡ് 1 ലെ I 12 എന്ന വേരിയബിൾ നോക്കുന്നു പിന്നെ ഈ നോഡ് 2 ലും അതെ വേരിയബിൾ ഉണ്ട് പക്ഷെ സൈൻ വ്യത്യാസമുണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിപ്പിച്ചു നാം ഈ വേരിയബിൾ ഇല്ലാതാക്കി എന്നാൽ ഇവിടെയും നമുക്ക് ഇഷ്ടം എന്നത് എല്ലാ വേരിയബിൾ ഉള്ള എന്നാൽ ഒരു മധ്യ വേരിയബിൾ ഇല്ലാത്ത ഒരു നേരായ വഴി ആണ് നിങ്ങൾ ഓർത്താൽ മനസ്സിലാകും അത് തന്നെ ആണ് നോഡൽ അനാലിസിസ് ൽ നാം ചെയ്തത് നാം കിർച്ചോഫ്സ് ലോ Kirchhoff's law ൽ നിന്നും ആരംഭിച്ചു പിന്നെ കുറുകെ ഉള്ള വോൾടേജ് അതോടൊപ്പം റെസിസ്റ്റൻസ് വച്ച് ഓരോ കറന്റ് ഉം മനസ്സിലാക്കി പിന്നീട് നമുക്ക് വേണ്ട ഇക്വേഷന്റെ ഘടന നാം നിർമിച്ചു കണ്ടക്ടൻസ് മാട്രിക്സ് നോക്കിയാൽ അത് മനസ്സിലാകും ഇവിടെയും അത് തന്നെ ആണ് നമുക്ക് വേണ്ടത് നാം ഇവിടെ ചെയ്തത് ഈ നോഡ് 1 2 എന്നിവയുടെ ഇക്വേഷൻ ഒന്നിപ്പിക്കുക ആയിരുന്നു ഞാൻ ഈ സർക്യൂട് ഇവിടെ കോപ്പി ചെയ്യുന്നു നോഡ് 1 ന്റെ ഈ ഇക്വേഷൻ പറയുന്നത് ഈ ലെഫ്റ് ഹാൻഡ് സൈഡ് ൽ നാം നോഡ് 1 ൽ നിന്നും പുറത്തേക്കു പോകുന്ന കറന്റ് ന്റെ തുക ആണ് കാണിക്കേണ്ടത് അത് എന്നത് ഈ നോഡ് 1 ലേക്കു കയറുന്ന കറന്റ് കളുടെ തുകക്ക് തുല്യമാണ് അത് പോലെ നോഡ് 2 ൽ നിന്നും പുറത്തേക്കു പോകുന്ന കറന്റ് ന്റെ തുക എന്നത് ഈ നോഡ് 2 ലേക്കു കയറുന്ന കറന്റ് കളുടെ തുകക്ക് തുല്യമാണ് ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക അത് ഈ നോഡ് 1 ൽ നിന്നും 2 ൽ നിന്നും പുറത്തേക്കു പോകുന്ന കറന്റ് ന്റെ തുക ആണ് അത് ഒരു ക്ലോസ്ഡ് സർഫേസ് ആണ് എന്തെന്നാൽ ഈ ആദ്യത്തെ ഇക്വേഷനിൽ നോഡ് 1 ന്റെയും 2 ന്റെയും ഇടയിൽ ഉള്ള കറന്റിനു ഒരു ദിശ ആയിരിക്കും എന്നാൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ സൈൻ മാറുന്നു അപ്പോൾ ഈ നോഡ് 1 ന്റെയും 2 ന്റെയും ഇടയിൽ ഉള്ള കറന്റ് എന്ത് തന്നെ ആയാലും അത് ക്യാൻസൽ ആകുന്നു അപ്പോൾ അവശേഷിക്കുന്നത് ഈ നോഡ് 1 പിന്നെ നോഡ് 2 എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള ഈ സർഫേസ് ൽ നിന്നും പുറത്തേക്കുള്ള കറന്റ് ആണ് ഈ സർഫേസ് നെ കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നതു അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ൽ എന്താണുള്ളത് അത് ഈ നോഡ് 1 പിന്നെ 2 എന്നിവയിലേക്ക് കടത്തി വിട്ടിട്ടുള്ള ആകെ കറന്റ് ആണ് ഒരു നോഡിൽ മാത്രം നോക്കാതെ നിങ്ങൾ നോക്കേണ്ടത് ഈ സർഫേസ് ലേക്കാണ് അതായത് നോഡ് 1 2 എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള സർഫേസ് ഒന്നിലധികം നോഡുകൾ ഉൾപ്പെട്ടിട്ടുള്ള സർഫേസ് ആണ് സൂപ്പർ നോഡ് ഇതിൽ പറയേണ്ട കാര്യം എന്നത് ഇതാണ് രണ്ടു നോഡുകൾക്കിടയിൽ ഒരു വോൾടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരു സൂപ്പർ നോഡ് ആയി പരിഗണിക്കേണ്ടതാണ് പിന്നീട് എഴുതേണ്ടത് സൂപ്പർ നോഡ് ഇക്വേഷൻ ആണ് ആ സൂപ്പർ നോഡ് ൽ നിന്നും പുറത്തേക്കു ഉള്ള കറന്റ് കളുടെ തുക കണക്കാക്കുക എന്നിട്ടു അത് ആ സൂപ്പർ നോഡ് ലേക്ക് കടക്കുന്ന കറന്റ് കളുടെ തുകക്ക് തുല്യമാക്കുക ഇത് എങ്ങനെ ചെയ്യും നിങ്ങൾക്കുള്ളത് അതെ വേരിയബിൾ V1 V2തന്നെ ആണല്ലോ നമുക്ക് ഉള്ളത് സൂപ്പർ നോഡ് ആണ് അതിൽ പല നോഡുകൾ ഉണ്ട് അതിനോരോന്നിനും ഓരോ വോൾടേജ് ഉണ്ട് നാം പറഞ്ഞ പോയിന്റ് എന്നത് ഈ നോഡ് 1 ന്റെയും 2 ന്റെയും ഇടയിൽ ഉള്ള കറന്റ് എന്നത് നാം നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ V1 V2 എന്നിവയുടെ ടെം ഇവിടെ ഉണ്ടാകുന്നതാണ് V1 എന്നത് നോഡ് 1 ലെ കണ്ടക്ടൻസ് കളുടെ തുക വച്ച് ഗുണിക്കുന്നതാണ് അത് പോലെ V2 നോഡ് 2 ലെ കണ്ടക്ടൻസ് കളുടെ തുക വച്ച് ഗുണിക്കുന്നതാണ് അപ്പോൾ എല്ലാ ടെം ഇവിടെ ഉണ്ടാകുന്നതാണ് ഈ നോഡ് 1 ഉം പിന്നെ മറ്റൊരു നോഡും തമ്മിൽ കണ്ടക്ടൻസ് ഉണ്ടെങ്കിൽ ആ ടെം ഇവിടെ കാണുന്നതാണ് ഇവിടെ അത് വ്യക്തമാണ് ഇതാണ് സൂപ്പർ നോഡ് അപ്പോൾ നോഡ് 1 ന്റെയും 2 ഒരുമിച്ചുള്ള ഇക്വേഷൻ എന്നത് ഈ സൂപ്പർ നോഡ് ൽ നിന്നും പുറത്തേക്കു വരുന്ന കറന്റ് കളുടെ തുക അത് എന്നത് V1G11 എന്തെന്നാൽ നോഡ് 1 ൽ ആകെ ഒരു കണ്ടക്ടൻസ് മാത്രമേ ഉള്ളൂ എന്നാൽ നോഡ് 2 ൽ നമുക്ക് 2 കണ്ടക്ടൻസ് കൾ ഉണ്ട് അത് G22 പിന്നെ G23 എന്നിവ ആണ് അപ്പോൾ നമുക്ക് കിട്ടും V2G22G23 ഇനി ഈ 2 നോഡുകളിൽ നിന്നും മറ്റു നോഡുകളിലേക്ക് ഉള്ള ഏതു കണ്ടക്ടൻസ് വേണമെങ്കിലും എടുക്കാനാകും അത് പതിവ് പോലെ നെഗറ്റീവ് സൈൻ ആയിരിക്കും അത് V3G23 ഇനി നമുക്ക് ഒരു നാലാമത്തെ നോഡ് ഉണ്ട് അതിന്റെ കണ്ടക്ടൻസ് എന്നത് G 14 ആണ് എന്നും കരുതുക അപ്പോൾ അത് V 4 × G 1 4 എന്നതായിരിക്കും അത് ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ൽ ഇല്ല എന്നാൽ അത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും ഇനി നമുക്ക് ഇൻഡിപെൻഡന്റ് സോഴ്സ് കളിൽ നിന്നും ഉള്ള ആകെ കറന്റ് എത്ര എന്ന് നോക്കേണ്ടതാണ് ഈ സൂപ്പർ നോഡ് ലേക്ക് പോകുന്ന അത് I1 ആണ് പിന്നെ മറ്റൊന്നും ഇവിടെ ബന്ധിപ്പിച്ചിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല ഉദാഹരണത്തിനായി കൊടുത്തതാണ് അപ്പോൾ ഈ തുക എന്നത് I1 ആണ് നോഡ് 1 2 എന്നിവ പരസ്പരം ബന്ധിപ്പിച്ച ഈ ഇക്വേഷൻ എന്നത് ഇവിടെ എഴുതാവുന്നതാണു നമുക്ക് ഇതാണ് ചെയ്യേണ്ടത് നോഡുകൾ ചേർത്ത് വച്ച് ഒരു സൂപ്പർ നോഡ് നിർമിക്കുക അതിനിടയിൽ വോൾടേജ് സോഴ്സ് ഉള്ളതാണ് ലെഫ്ട് ഹാൻഡ് സൈഡ് ൽ ഈ സൂപ്പർ നോഡ് ൽ നിന്നും പുറത്തേക്കു പോകുന്ന കറന്റ് കളുടെ തുക എഴുതുക പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ൽ ഈ സൂപ്പർ നോഡ് ലേക്ക് കടക്കുന്ന ഇൻഡിപെൻഡന്റ് സോഴ്സ് കളിൽ നിന്നും ഉള്ള ആകെ കറന്റ് ഉം എഴുതുക ഇവിടെ പൊളാരിറ്റി പരിഗണിക്കേണ്ടതാണ് തീർച്ചയായും ഈ വോൾടേജ് സോഴ്സ് ഇക്വേഷൻ എന്നത് നമുക്ക് പരിശോധിച്ച് എഴുതാനാകുന്നതാണ് അത് V1 V2 V0 ആണ് ഈ നോഡ് 3 ൽ ഒരേ കാര്യം തന്നെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് V 3 കണ്ടക്ടൻസ് ന്റെ തുക അത് V 2 3 G 3 3 V 2 × G 2 3 എന്നതാണ് ഇത് മുഴുവൻ I 3 ക്കു തുല്യമാണ് ഇപ്പോൾ നമുക്ക് 3 ഇക്വേഷനുകൾ ഉണ്ട് അതോടൊപ്പം 3 വേരിയബിൾ അപ്പോൾ നമുക്ക് നോഡൽ വോൾടേജ് സോൾവ് ചെയ്യാം ഇത് നമുക്ക് മാട്രിക്സ് രൂപത്തിലും എഴുതാനാകും എന്നാൽ മാട്രിക്സ് നമുക്ക് വേണ്ട സിമെട്രി ഉണ്ടാകുന്നതല്ല ഈ മാട്രിക്സ് നെ നാം കണ്ടക്ടൻസ് മാട്രിക്സ് എന്നാകും വിളിക്കുക എന്നാൽ എല്ലാ എലമെന്റ് നും കണ്ടക്ടൻസ് ന്റെ അതെ ഡയമെൻഷൻ ആണ് എന്ന് പറയാനാകില്ല ഈ ഉദാഹരണത്തിൽ ഞാൻ അത് കാണിച്ചു തരാം ഞാൻ ആദ്യ റോ ൽ ഞാൻ സൂപ്പർ നോഡ് എഴുതാൻ പോകുന്നു അത് G11G22V2G22G23 V1V2V3G23 എന്നാണ് അത് I 1 നു തുല്യമായിരിക്കും ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്നത് വോൾടേജ് സോഴ്സ് നു വേണ്ടി ആണ് ഈ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ നമ്പർ നെ ആണ് അതായതു ഇത് ഈ V1 V2 V0 നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അത് ഈ വോൾടേജ് സോഴ്സ് ന്റെ വോൾടേജ് ആണ് അവസാനം ഈ നോഡ് 3 ന്റെ ഇക്വേഷൻ എഴുതുന്നു അത് G33G23 പിന്നെ G23 എന്നത് I3 ആയിരിക്കും അപ്പോൾ ഇതാണ് G മാട്രിക്സ് നാം അതിനെ കണ്ടക്ടൻസ് മാട്രിക്സ് എന്നാകും വിളിക്കുക എന്നാൽ ഇവ കണ്ടക്ടൻസ് അല്ല മറിച്ചു ഡയമെൻഷൻ ഇല്ലാത്ത അളവായിരിക്കും അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ൽ ഉള്ളത് സോഴ്സ് വെക്റ്റർ ആണ് അതിൽ ഉള്ളത് ഇൻഡിപെൻഡന്റ് സോഴ്സ് ആയിരിക്കും അപ്പോൾ നമുക്കുള്ളത് ഒരു മാട്രിക്സ് x അൺ നോൺ വെക്റ്റർ എന്നത് വെക്റ്റർ ആയിരിക്കും ഈ വെക്റ്റർ ൽ വോൾടേജ് സോഴ്സ് ഉണ്ടാകും അപ്പോൾ ഈ വെക്റ്റർ ൽ ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ഉം ഉണ്ടാകും അതോടൊപ്പം ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഉം കാണും ഇവിടെ ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കു ഈ വോൾടേജ് സോഴ്സ് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നോഡുകൾ ചേർത്ത് വച്ച് സൂപ്പർ നോഡ് നിർമിക്കാം അതിനു ശേഷം നോഡൽ അനാലിസിസ് ചെയ്യാം നിങ്ങളുടെ സർക്യൂട്ടിൽ വോൾടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട നോഡുകൾ ചേർത്ത് വച്ച് സൂപ്പർ നോഡ് നിർമിക്കാം അതിൽ ഒരു ഇക്വേഷൻ മാത്രം മതി അപ്പോൾ ഈ വോൾടേജ് സോഴ്സ് കരണമായുണ്ടായ പരിമിതി കൈകാര്യം ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം അതിൽ വോൾടേജ് സോഴ്സ് പല വിധത്തിൽ നല്കിയിരിക്കും നമുക്ക് പറയാം സർക്യൂട് എന്നത് രണ്ടു വോൾടേജ് സോഴ്സ് ഉണ്ടാകും അതോടൊപ്പം അവക്ക് പൊതുവായി ഒരു നോഡ് ഉണ്ടാകും നമുക്ക് പറയാം ഈ വോൾടേജ് സോഴ്സ് എന്നത് നോഡ് 1 നും 2 നും കുറുകെ ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരെണ്ണം നോഡ് 2 നും 3 നും ഇടയിൽ ഈ കേസിൽ എന്ത് ചെയ്യും ഈ 3 നോഡുകൾ ചേർത്ത് ഒരു സൂപ്പർ നോഡ് നിർമിക്കുക എന്നതാണ് വ്യക്തമായും നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ ഉള്ള കറന്റ് എത്രയെന്നു നിങ്ങൾക്കറിയില്ല ഒപ്പം തന്നെ അവയെല്ലാം ഇവിടെ നീക്കം ചെയ്യേണ്ടതാണ് ഒരു സൂപ്പർ നോഡ് ആണ് ഈ 3 നോഡുകളിൽ നിന്നും നിങ്ങൾ നിർമ്മിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ പല മോഡുകൾ ഉള്ളതാണ് നാം അവ ഒരുമിച്ചു വച്ച് എന്നതാണ് 2 ൽ കൂടുതൽ ഉണ്ടെങ്കിലും അത് പ്രശ്നമില്ല ഈ സൂപ്പർ നോഡ് ൽ ഇപ്പോഴും നമുക്ക് KCL എഴുതേണ്ടതാണ് ഈ ലെഫ്റ് ഹാൻഡ് സൈഡ് ൽ സൂപ്പർ നോഡ് ൽ നിന്നും റെസിസ്റ്റർ ലൂടെ പുറത്തേക്കു പോകുന്ന കറന്റ് ന്റെ ആകെ തുക ആണ് എന്നാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ൽ ഈ സൂപ്പർ നോഡ് ലേക്ക് കടത്തി വിടുന്ന സോഴ്സ് കറന്റ് കളുടെ തുക ആണ് ഇനി നിങ്ങള്ക്ക് 2 ഇക്വേഷൻ കൂടി ഉണ്ട് ഇത് V1V2 പിന്നെ V3 എന്നിങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം V1 V2 എന്നത് V0 ആണ് പിന്നെ V2 V3എന്നത് Vx ആയിരിക്കും നിങ്ങൾ 2 ൽ കൂടുതൽ നോഡുകൾ ഒന്നിപ്പിച്ചാൽ അത് ഈ കേസിൽ 3 ആയതു കൊണ്ട് 2 ഇക്വേഷനുകൾ നഷ്ടമാകും എന്നാൽ വോൾടേജ് സോഴ്സ് കളിൽ നിന്നും അത് നമുക്ക് നികത്താം മറ്റൊരു സാധ്യത എന്നത് ഒരു പ്രത്യേക നോഡിനും റഫറൻസ് നോഡ് നും ഇടയിൽ വോൾടേജ് സോഴ്സ് ബന്ധിപ്പിക്കുന്നതാണ് ഇവിടെ ഈ V0 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറയാനാകും അത് റഫറൻസ് നോഡ് നു കുറുകെ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ കേസിൽ ഈ നോഡ് 1 ൽ നിങ്ങൾ ഇക്വേഷൻ എഴുതേണ്ട പിന്നെ വേറൊരു രീതി എന്നത് ഇവിടെ സൂപ്പർ നോഡ് ഇക്വേഷൻ എഴുതി നോക്കുക എന്നതാണ് ഈ സൂപ്പർ നോഡ് ൽ നോഡ് 1 ഉണ്ടാകും പിന്നെ റഫറൻസ് നോഡ് എന്നാൽ നിങ്ങൾ റഫറൻസ് നോഡ് നു ഇക്വേഷൻ എഴുതാറില്ലല്ലോ വോൾടേജ് സോഴ്സ് എന്നത് നേരെ കൊടുക്കാനാകുന്നതാണ് അപ്പോൾ V1V0 ആയിരിക്കും അപ്പോൾ ഈ നോഡ് വോൾടേജ് എന്നത് നേരെ തന്നിരിക്കുന്നു അപ്പോൾ അത് V 0 ആയിരിക്കും അപ്പൊൾ അത് സോൾവ് ചെയ്യേണ്ട കാര്യം ഇല്ല നോഡ് 1 ൽ ഇക്വേഷൻ എഴുതേണ്ട പക്ഷെ നോഡ് 2 ൽ പിന്നെ 3 യിൽ നമുക്ക് എഴുതേണ്ടി വരും അപ്പോൾ ഈ നോഡ് 1 ൽ വോൾടേജ് V0 ആയിരിക്കും അപ്പൊൾ അത് സോൾവ് ചെയ്യേണ്ട കാര്യം ഇല്ല അത് എഴുതുമ്പോൾ V1V0ആയിരിക്കും